ഇനി ആത്മകഥാപരമായ ഓർമ്മ എന്നറിയപ്പെടുന്ന എപ്പിസോഡിക് ഓർമ്മയിലേക്ക് നമുക്ക് കടന്നു വരാം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ആത്മകഥാപരമായ ഓർമ്മ ഒരാളുടെ സ്വന്തം ജീവിതത്തിലെ സംഭവങ്ങളുമായോ അനുഭവങ്ങളുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരു നിർദ്ദിഷ്ട ജീവിതാനുഭവങ്ങളുടെ ചില ഓർമ്മകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുന്ന സംഭവങ്ങളും അനുഭവങ്ങളുമാണിവയെല്ലാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു അതിനാൽ ഇത് ആത്മകഥാപരമായ ഓർമ്മ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ സ്വകാര്യ ജീവിത വിവരണം പോലെയാണ് സാധാരണയായി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആവർത്തനമില്ലാത്ത സംഭവങ്ങളുടെ പ്രതിച്ഛായ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിഗത ഓർമ്മ ആത്മകഥാപരമായ ഓർമ്മക്കുണ്ട് എന്നാൽ വ്യക്തിഗത മെമ്മറിക്ക് സമാനമായ വസ്തുതകൾ ഇതിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഇത് പ്രതിച്ഛായ അടിസ്ഥാനമാക്കിയുള്ളതാകുന്നില്ല ആയതിനാൽ ആവർത്തന സംഭവങ്ങളുടെ പൊതുവായ വ്യക്തിഗത ഓർമ്മയും ആത്മകഥാപരമായ ഓർമ്മയുടെ ഒരു ഭാഗമായി മാറാം അതിനാൽ ആവർത്തനമില്ലാത്ത സ്വകാര്യ സംഭവങ്ങൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നു എന്നാൽ ഇത് വ്യക്തിഗതമായ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതും അതുപോലെ നിങ്ങൾക്ക് അതിൻറെ വളരെ വ്യക്തമായ പ്രതിച്ഛായ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിഗത ഓർമ്മയും ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരേയൊരു സംഭവം വ്യക്തിപരമായി വളരെയധികം പ്രാധാന്യം നൽകുന്നു അതുപോലെ അതിൻറെ പ്രത്യേകത കാരണം പ്രതിച്ഛായ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിഗത ഓർമ്മയും നിലനിൽക്കുന്നു വ്യക്തിഗത ഓർമ്മയുടെ വസ്തുതകൾക്ക് സമാനമായ പ്രതിച്ഛായ അടിസ്ഥാനമാക്കിയുള്ളതല്ലാത്ത ഓർമ്മയാണ് നാം ചർച്ച ചെയ്ത രണ്ടാമത്തെ വശം പൊതുവായ വ്യക്തിഗത ഓർമ്മയുടെ ആവർത്തന സംഭവങ്ങളെക്കുറിച്ച് നാം മൂന്നാമതായി ചർച്ച ചെയ്തു ആയതിനാൽ ഞാൻ എൻറെ പേര് എപ്പോൾ ഓർക്കുന്നുവോ അപ്പോളെല്ലാം എൻറെ രക്ഷകർത്താക്കളുടെ പേരും മറ്റ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും നാമുമായി ബന്ധമുള്ളവയാണെങ്കിൽ അവയെയെല്ലാം ആത്മകഥാപരമായ ഓർമ്മയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആയതിനാൽ മറ്റ് തരത്തിലുള്ള ഓർമ്മയെ ബാധിക്കുന്ന ഘടകങ്ങൾ ആത്മകഥാപരമായ ഓർമ്മയുടെയുടെ സംഘടനാ പ്രക്രിയയെയും ബാധിക്കുന്നു ശിശു വിസ്മൃതി എന്ന രസകരമായ ഒരു കാര്യം നിങ്ങൾക്ക് ആത്മകഥാപരമായ ഓർമ്മയിൽ കാണുവാൻ കഴിയും തീർച്ചയായും വിസ്മൃതി സംഭവങ്ങളെ മറക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല മറിച്ചതൊരു അസുഖമാണ് എന്നാലിവിടെ ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്ന ശിശു വിസ്മൃതി തികച്ചും സാധാരണമാണെന്ന് കണക്കാക്കപ്പെടുന്നു നമ്മുടെ ജീവിത സംഭവങ്ങളിലൂടെ തന്നെ യഥാർത്ഥത്തിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസിലാക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ മുൻ ജീവിത കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചുപോയി സംഭവങ്ങൾ ഓർമ്മിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന സംഭവങ്ങൾ നടന്ന കാലഘട്ടത്തിലേക്ക് പോകുന്നു അതുപോലെ നമ്മളിൽ ഭൂരിഭാഗം പേരും നാലാമത്തെ വയസ്സിലോ അഞ്ചാമത്തെ വയസ്സിലോ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെയായിരിക്കും ഓർത്തെടുക്കാൻ ശ്രമിക്കുക ആയതിനാൽ ആ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് ഗണ്യമായ ഒരു കാലഘട്ടം കടക്കേണ്ടിവന്നതിനാൽ നിരവധി ദിവസത്തെ അനുഭവങ്ങൾ ഓർമ്മിക്കപ്പെടുന്നില്ല പക്ഷെ അവയിൽ പ്രാധാന്യം അർഹിക്കുന്നത് മാത്രം നാം ഓർത്തെടുക്കുന്നു ആയതിനാൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലെ ജീവിത സംഭവങ്ങൾ സാധാരണയായി 3 വർഷം വരെ മനുഷ്യരെന്ന നിലയിൽ നാം പൂർണ്ണമായും മറന്നുപോകാനുള്ള സാധ്യതയുണ്ടാകുന്നു അതിനു ശേഷവും അതിൻറെ ഓർമ്മയുണ്ടെങ്കിലും എല്ലാം ഓർത്തെടുക്കാതെ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയെ മാത്രമേ നാം ഓർത്തെടുക്കുന്നുള്ളൂ ജീവിതത്തിൻറെ ആദ്യ 2 3 വർഷത്തെ സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുവാൻ കഴിയാത്തതിൻറെ ഈ കഴിവില്ലായ്മയെയാണ് ശിശു വിസ്മൃതി എന്ന് വിളിക്കുന്നത് എന്തെന്നാൽ അത് ജീവിതത്തിൻറെ ആദ്യ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇതിനെ ശിശു വിസ്മൃതി എന്ന് വിളിക്കുന്നു കൂടാതെ ഇത് ഒരു തരം മറവി ആണെങ്കിലും ശിശു വിസ്മൃതിയെ അസാധാരണമായി കണക്കാക്കാറില്ല വിസ്മൃതി എന്ന വാക്കിനെ ഇവിടെ സ്മരിച്ചെങ്കിലും ഇത് രോഗലക്ഷണശാസ്ത്രമാകുന്നില്ല

ആത്മകഥാപരമായ ഓർമ്മയുടെ രസകരമായ ഒരു വശമാണ് ഫ്ലാഷ് ബൾബ് ഓർമ്മ വളരെ ഉയർന്ന അളവിലുള്ള ആശ്ചര്യവും പരിണതഫലങ്ങളും ഉൾക്കൊള്ളുന്ന സംഭവങ്ങളുടെ വിശിഷ്ടമായ ഓർമ്മക്ക് മികച്ച ഓർമ്മ ലഭിക്കുവാൻ സാധ്യതയുണ്ടാകുന്നു എന്ന ഒരു അനുമാനം വിശിഷ്ടമായ യന്ത്രഘടനയുടെ അനുമാനം എന്നതിൻറെ വെളിച്ചത്തിൽ ബ്രൌണും കുലിക്കും പ്രസ്താവിച്ചു ആയതിനാൽ വളരെ ഉയർന്ന രീതിയിൽ ആശ്ചര്യപ്പിക്കുന്നതായോ അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ മറക്കാനാവാത്തതോ ആയിട്ടുള്ളതാണെങ്കിൽ അതിൻറെ നിർദ്ദിഷ്ട ചലനങ്ങൾ നാം ഓർമ്മിക്കുന്നു ഇതിനെയാണ് ഫ്ലാഷ് ബൾബ് ഓർമ്മ എന്ന് വിളിക്കുന്നത് അടിസ്ഥാനപരമായി ഫ്ലാഷ് ബൾബ് ഓർമ്മ എന്നത് ഒരു തരം ആത്മകഥാപരമായ ഓർമ്മ മാത്രമാകുന്നു ഇപ്പോൾ നാം ചർച്ച ചെയ്ത എപ്പിസോഡിക് ഓർമ്മയിൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലാഷ് ബൾബ് ഓർമ്മയിലെ ദൃക്സാക്ഷി ഓർമ്മ എന്നത് സ്ഥലം തീയതി സമയം കൂടാതെ മനോഭാവം എന്നിവയുടെ വീണ്ടെടുക്കലാണ് അതിൽ നിങ്ങൾക്കെന്ത് ലഭിക്കുന്നു നിമിഷങ്ങളുടെയും പരിണതഫലങ്ങളുടെയും വ്യക്തമായ ഛായ നമുക്ക് ലഭിക്കുന്നു അതിനാൽ ആശ്ചര്യവും പരിണതഫലങ്ങലങ്ങളും അവിടെ ഉണ്ടായിരിക്കണം എവിടെ സംഭവിച്ചു ഏതു സമയത്ത് ഏതു തീയതിയിൽ കൂടാതെ ഛായയെ അടിസ്ഥാനമാക്കിയുള്ള സംഭവങ്ങളുടെ ചിത്രങ്ങൾ എന്നിവയെ ആസ്പതമാക്കിയായിരിക്കും ഫ്ലാഷ് ബൾബ് ഓർമ്മ രൂപവൽക്കരിക്കപ്പെടുന്നത് ഫ്ലാഷ് ബൾബ് ഓർമ്മ എന്നത് പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുടെ വ്യത്യസ്തമായ ഓർമ്മകളാണല്ലോ എന്നാൽ അവ ദൃക്സാക്ഷി ഓർമ്മയെ പോലെ അപഭ്രംശം സംഭവിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണയായി ഫ്ലാഷ് ബൾബ് ഓർമ്മയിൽ നാം എല്ലായ്പ്പോഴും അപ്രതീക്ഷിതമായ ഒരു കാര്യത്തിൻറെ ഓർമയായിരിക്കും എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കുക അതിനാൽ ആശ്ചര്യമെന്നത് അടിസ്ഥാന വികാരങ്ങളിൽ ഒന്നായാതുകൊണ്ട് അതിൻറെ ഒരു ഘടകം ഇവിടെയുണ്ടാകുന്നു അതിനാൽ ആ സംഭവത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന ആശ്ചര്യം നിങ്ങളെ വൈകാരികമായി ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ആ സംഭവത്തിൽ ഉയർന്ന തോതിലുള്ള വൈകാരിക ഉത്തേജനം ഉണ്ടാകുന്നതായി കാണാം അതിനാൽ ഇത് ഫ്ലാഷ് ബൾബ് ഓർമ്മയുടെ ഭാഗമായി മാറുന്നു ഫ്ലാഷ് ബൾബ് ഓർമ്മക്ക് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്നാമതായി സംഭവത്തിൻറെ പ്രാധാന്യം രണ്ടാമതായി അതിന് വ്യക്തിപരമായി എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് മറ്റൊന്ന് അതിൻറെ അനന്തരഫലം അതിനാൽ അനന്തരഫലങ്ങൾ എത്രത്തോളം ഭീകരമാകുന്നുവോ ഓർമ്മിക്കുവാനുള്ള സാധ്യതകൾ അത്രത്തോളം ഉയരുന്നു എന്തുകൊണ്ടെന്നാൽ ഗുരുതരമായ വലിയ പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉയർന്ന തോതിലുള്ള വൈകാരിക ഉത്തേജനത്തിന് പ്രേരിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ മൂന്ന് കാര്യങ്ങളും ഫ്ലാഷ് ബൾബ് ഓർമ്മയുടെയുടെ പ്രധാനപ്പെട്ട നിർണ്ണായകഘടകങ്ങളായി മാറുന്നു 1947 ൽ ഇന്ത്യ രണ്ടായി പിളർന്ന് ഇന്ത്യ പാക്കിസ്ഥാൻ എന്നിങ്ങനെ മാറിയ സമയത്തും 1984 ൽ സിഖ് വിരുദ്ധ കലാപം ഇന്ത്യയിൽ നടന്ന സമയത്തും അക്രമത്തിനിരയായ രോഗിയായ ഈ സ്ത്രീയെ നിരീക്ഷിക്കൂ നാഷണൽ ജ്യോഗ്രഫികിലെ പരിപാടികളിൽ ഒന്നിൽ ഒരു വിയറ്റ്നാം യുദ്ധ ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിന് സ്വന്തം ഫോട്ടോഗ്രാഫുകൾ കാണിക്കുകയും യുദ്ധം അവസാനിച്ച് വർഷങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ വീഡിയോയിൽ നോക്കൂ ഈ ചിത്രങ്ങൾ എത്രത്തോളം സങ്കടപ്പെടുത്തുന്നു എന്നും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും മനസ്സിലാക്കാം നിങ്ങളുടെ പക്കൽ ഈ ചിത്രങ്ങൾ ഉണ്ടോ ഇതൊരു ഹൃദയ സ്പർശിയായ ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഈ രണ്ട് വീഡിയോകൾ നോക്കുകയാണെങ്കിൽ ആദ്യ സന്ദർഭത്തിൽ സ്ത്രീക്ക് അവളുടെ അനുഭവം ഓർമ്മിക്കാൻ കഴിയുന്നു ഇതു സമയത്താണ് പോലീസുകാർ എന്താണ് പറഞ്ഞത് അതുപോലെ സാമുദായിക അക്രമത്തിൻറെ രണ്ട് അനുഭവങ്ങൾ തമ്മിൽ അവർ താരതമ്യം ചെയ്യുന്നുമുണ്ട് രണ്ടാമത്തെ സംഭവത്തിൽ ആ ഫോട്ടോഗ്രാഫുകളിലേക്ക് വീണ്ടും തുറന്നുകാട്ടിയപ്പോൾ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങലങ്ങളും വികാരങ്ങളും അദ്ദേഹത്തിന്റെ ഓർമ്മയെ ശക്തിപ്പെടുത്തുകയും വീണ്ടെടുക്കേണ്ടതായ സുപ്രധാന ഓർമകളെ സ്മരിക്കുകയും ചെയ്യുന്നു അതിനാൽ സംഭവത്തിന്റെ വ്യക്തിപരമായ പ്രാധാന്യം സംഭവത്തിൻറെ അനന്തരഫലങ്ങൾ സംഭവത്തിൻറെ ഓർമ്മയുമായി ബന്ധപ്പെട്ട വൈകാരിക ഉത്തേജനവും അടങ്ങുന്ന നാം ഇപ്പോൾ ചർച്ച ചെയ്ത മൂന്ന് കാര്യങ്ങൾ ഫ്ലാഷ് ബൾബ് ഓർമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാകുന്നു എപ്പിസോഡിക് ഓർമ്മയും ഫ്ലാഷ് ബൾബും സാക്ഷ്യപത്രവും ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഇനി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് സെമാൻറിക് ഓർമ്മ സെമാൻറിക് എന്നതുകൊണ്ട് നാമിവിടെ അർത്ഥമാക്കുന്നത് പൂർണ്ണത എന്നാണ് അതിനാൽ വസ്തുതകളുടെ ഘടനാപരമായ രേഖ ഓർമ്മ ആശയങ്ങൾ കഴിവുകൾ എന്നിവ സെമാൻറിക് ഓർമ്മയിൽ ഉൾക്കൊള്ളുന്നു അതായത് അടിസ്ഥാനപരമായി പ്രത്യേകമായ അറിവ് വാക്കുകളുടെ അർത്ഥം ചിഹ്നങ്ങൾ ആശയങ്ങൾ കൂടാതെ അവിടെ ക്രമീകരിക്കുന്ന നിയമങ്ങൾ എന്നിവയുടെ നിലനിർത്തലാകുന്നു അതിനാൽ ഈ ഓർമ്മയുടെ ഘടന അടിസ്ഥാനപരമായി നിർദ്ദിഷ്ട സ്ഥലങ്ങളുമായും നേടിയ സമയവുമായും ബന്ധമില്ലാത്ത പൊതുവയിട്ടുള്ള വിജ്ഞാനത്തെ ശേഖരിക്കുന്നു എപ്പിസോഡിക് ഓർമ്മയുടെ കാര്യത്തിൽ സംഭവങ്ങളുടെ മുഴുവൻ ശ്രേണികളും ഓരോ പതിപ്പുകളായി വിഭജിക്കപ്പെടുന്നതിൻറെ അടിസ്ഥാനത്തിൽ അതിൻറെ പ്രധാനപ്പെട്ട സ്വാഭാവങ്ങളായ സംഭവം നടന്ന സമയം പരിണിതഫലം അതിൻറെ സ്ഥാനം എന്നിവയെ കണക്കാക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ വ്യക്തിപരമായ പ്രാധാന്യവും ഫോറൻസിക് പ്രാധാന്യവുമുള്ള ആ ബന്ധത്തെ നിങ്ങൾ ഏതു രീതിയിലാകും മനസ്സിലാക്കുക ആശയങ്ങളാലും അവയെ പ്രതിനിധീകരിക്കുന്ന പദങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളാലും സെമാൻറിക് ഓർമ്മക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിനാൽ ദൃക്സാക്ഷി ഓർമ്മയെന്നും എന്നും ഫ്ലാഷ് ബൾബ് ഓർമ്മയെന്നും ഇതിനെ തരം തിരിച്ചിരിക്കുന്നു അതിനാൽ സെമാൻറിക് ഓർമ്മയിൽ നടന്ന സമയവും സ്ഥലവും അപ്രസക്തമാകുന്നു അടിസ്ഥാനപരമായി ഇവിടെ നടക്കുന്നതെന്തെന്നാൽ നിങ്ങൾക്ക് ഘടകങ്ങളുടെ ഒരു ശൃംഖലയുണ്ട് ഓരോ ഘടകങ്ങളും അടിസ്ഥാന ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നു എത്രത്തോളം വലുതായി നിങ്ങളുടെ ശൃംഖല വ്യാപിപ്പിക്കുന്നുവോ അത്രത്തോളം മികച്ചതാകുന്നു നിങ്ങളുടെ സെമാൻറിക് ഓർമ്മ ആ നിർദ്ദിഷ്ട ആശയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് ഇവിടെ മികച്ചത് കൊണ്ടർത്ഥമാക്കുന്നത് സെമാൻറിക് ഓർമ്മയിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അവ ആശയത്തെ ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ആദ്യത്തേതാണ് സെമാൻറിക് ശൃംഖല നാം രൂപപ്പെട്ട ഘടകങ്ങളെയും ശൃംഖലയെയും കുറിച്ച് മനസ്സിലാക്കിയല്ലോ വീണ്ടും നമുക്കത് മനസ്സിലാക്കാം അതായത് സെമാൻറിക് ആശയങ്ങളുടെ ശൃംഖലയും അതിൻറെ ആദ്യരൂപവും മാതൃകകളും ഓരോന്നോരോന്നായി നമുക്ക് ആ നലെണ്ണത്തെക്കുറിച്ച് മനസ്സിലാക്കാം ആശയങ്ങൾ തമ്മിലുള്ള അർത്ഥവത്തായ ബന്ധത്തെ പ്രതിനിധീകരിക്കുന്ന അടിസ്ഥാനപരമായ അറിവിനെയാണ് സെമാൻറിക് ശൃംഖല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഒരു മൃഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ജീവനോടെയുള്ള അതിൻറെ രൂപം മനസ്സിലേക്ക് വരുന്നു കാരണം ജീവനുള്ളതും അല്ലാത്തതുമായ സൃഷ്ടികളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ നാം പഠിച്ചിട്ടുണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഒരു സസ്തനിയാകും സസ്തനികൾക്ക് ഒരു ഉദാഹരണമായി നിങ്ങൾ ചെമ്മരിയാടിനെ വിചാരിക്കുന്നു ആ ചെമ്മരിയാടിനെ വിചാരിക്കുന്ന നിമിഷം നിങ്ങൾ അതിൻറെ രോമാവരണത്തെക്കുറിച്ച് ഓർക്കുന്നു അതിനാൽ അതുപോലെ രോമാവരണമുള്ള മറ്റു ജീവികളെക്കുറിച്ചും നിങ്ങൾ ഓർക്കുന്നു ഉദാഹരണത്തിന് ധ്രുവക്കരടിയെന്ന സസ്തനിയായ മൃഗത്തെകുറിച്ചും നിങ്ങൾ ഓർക്കുന്നു അതിനാൽ ഇങ്ങനെയാണ് ഓരോ ശൃംഖലക്കും ഓരോ ഘടകത്തിൻറെ സഹായത്തോടെ വളരുന്നത് ഓരോ ഘടകവും ഓരോ പ്രധാനപെട്ട ആശയത്തെ പ്രതിനിധീകരിക്കുന്നു തുടർന്ന് ആ ശൃംഖല വ്യപിപ്പിക്കപ്പെടുകയും അതിൽ നിന്നും കൂടുതൽ സമഗ്രമായ ശൃംഖലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എത്രത്തോളം ഘടകങ്ങളായി ബന്ധിപ്പിക്കുവാൻ കഴിയുന്നുവോ അത്രത്തോളം മികച്ചതായിരിക്കും നിങ്ങളുടെ സെമാൻറിക് ഓർമ്മ എന്താണ് ആശയങ്ങൾ ഇവ ഒന്നുമല്ല വസ്തുക്കളോ സംഭവങ്ങളോ ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലളിതമായ മാനസിക വിഭാഗങ്ങലാകുന്നു ഇവ നിങ്ങൾ ഒരു വസ്തുവിനെയോ സംഭവത്തെയോ ഓർക്കുകയും അതിലൂടെ ഒരു മാനസിക വിഭാഗം രൂപീകരിക്കുന്നതിനെയാണ് ആശയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആദ്യരൂപങ്ങളാണ് ഈ വിഭാഗങ്ങളുടെ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്നത് ആയതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതൊരു ആശയത്തിൻറെയും മികച്ചതായിട്ടുള്ള ഉദാഹരണമാകുന്നിവ എല്ലാ ആശയവും ഉദാഹരണത്തിന് നിങ്ങൾ മരം എന്ന വാക്ക് കേട്ട മാത്രയിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന മാനസിക പ്രാതിനിധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലേക്ക് നോക്കൂ സ്ക്രീനിലെ ചിത്രത്തിലേതുപോലെയുള്ള മരത്തിൻറെ പുറമെയുള്ള വരകൾ ആയിരിക്കും നിങ്ങൾ വരച്ചിട്ടുണ്ടാവുക ഞാൻ ക്ലാസ് മുറിയിൽ നിരവധി തവണ ഈ പ്രക്രിയ നടത്തിയിട്ടുണ്ട് ഒരു ഉദാഹരണം നിങ്ങളുമായി ഞാൻ പങ്കിടട്ടെ വടക്കേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള വിദ്യാർഥികളിൽ ഇത് പരീക്ഷിച്ചു അവർക്ക് മരത്തിൻറെ ഇതുപോലെയുള്ള ഒരു പ്രതിരൂപം മാത്രമേ അറിയുകയുള്ളൂ യഥാർത്ഥത്തിൽ നിങ്ങളും ഈ ഉദാഹരണം പോലെയുള്ള ഒന്നാകും വരച്ചിട്ടുണ്ടാവുക പക്ഷെ അങ്ങേയറ്റത്തെ വടക്കൻ ഭാഗത്ത് നിന്നുള്ള പർവത പ്രദേശത്ത് വസിക്കുന്ന ചില വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള ഒന്നായിരിക്കും ഉണ്ടാവുക എന്നറിയാം അതിനാൽ നിങ്ങൾക്ക് ഒരു വൃക്ഷത്തെക്കുറിച്ച് ലഭിക്കുന്ന പ്രദർശനത്തിൻറെയും അനുഭവത്തിൻറെയും അടിസ്ഥാനത്തിൽ ആ ആശയത്തിൻറെ ചിത്രത്തിൻറെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഉദാഹരണം നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതിനെയാണ് ആദ്യരൂപം എന്ന് വിളിക്കുന്നത് വിഭാഗം എന്നത് നിങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും മികച്ച ഉദാഹരണം അത് ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു മരം എന്നത് ഏതു മരവുമാകാം ആൽമരങ്ങളാകാം പൈൻ മരങ്ങളാകാം മാവാകാം എന്നാൽ നിങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കാണുന്ന വൃക്ഷത്തെ ആശ്രയിച്ചായിരിക്കും ആദ്യരൂപമായ മാനസിക ചിത്രം നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് ഇനി നമുക്ക് മാതൃകകളിലേക്ക് കടക്കാം നിങ്ങൾ ഒരു പ്രാണിയെക്കുറിച്ച് ചിന്തിക്കുന്നു അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഒരു പുൽച്ചാടിയുമുണ്ട് അതിനാൽ ഒരു സൈക്കിളിനെ ഒരു ഗതാഗത മാർഗ്ഗമായി നിങ്ങൾ കരുതുന്നു അപ്പോൾത്തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റുചിലത് കടന്നു വരുന്നു അതിനാൽ ഇവ വീണ്ടും മാതൃകകളുടെ മികച്ച ഉദാഹരണമായി വരുന്നു മാതൃകകളുടെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നതിന് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മികച്ച ഉദാഹരണങ്ങൾ ഇവയാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്ത ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഘടകങ്ങൾ ഉണ്ട് ഈ ആശയങ്ങളെല്ലാം മറ്റ് നിരവധി ആശയങ്ങളുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഒരു ശൃംഖല രൂപപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു നമുക്ക് ഒരു ആദ്യരൂപവുമുണ്ട് അതുപോലെ ഈ ആശയം നിങ്ങൾക്കായി വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും മികച്ച ഉദാഹരണവുമുണ്ട് അതിനാൽ നിങ്ങളുടെ സെമാൻറിക് ശൃംഖല ഉപയോഗിച്ച് ലോകത്തിലെ ചില പ്രതിഭാസങ്ങളെ വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നു ഇവിടെയുള്ള ഉദാഹരണത്തിൽ നാം പറഞ്ഞിരിക്കുന്നതുപോലെ കാര്യങ്ങൾ വളരെ വ്യക്തമായതോ ഒറ്റപ്പെട്ടതായിട്ടുള്ള രീതിയിലോ അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന കാര്യം ഓർക്കുക എന്നാൽ ഒരു ജീവിയെന്ന നിലയിൽ നമ്മുടെ ഗ്രാഹ്യത്തിനായി അത് ലളിതമാക്കേണ്ടതായി വരുന്നു മിക്ക കാര്യങ്ങളും വ്യാഖ്യാനിക്കാൻ കഴിവില്ലാത്ത സങ്കീർണ്ണമായ ഒരു വ്യവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ആയതിനാൽ സെമാൻറിക് ശൃംഖല ഇവിടെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഇപ്പോൾ ദീർഘകാല ഓർമ്മയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻറെ വിവരങ്ങളുടെ വ്യവസ്ഥിതി പൂർണ്ണമായും ആത്മനിഷ്ഠമാകുന്നു നിങ്ങളുടെ സൌകര്യത്തിനനുസരിച്ചുള്ള വിവരങ്ങളുടെ ചിത്രങ്ങൾ ഭൌതികമായതോ അമൂർത്തമോ ആകാം അതിനാൽ നിങ്ങളോട് 'പ്രായമുള്ള' എന്ന വാക്ക് പറയുകയാണെങ്കിൽ കൂടാതെ നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന രക്ഷകർത്താക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 'പ്രായമുള്ള' എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നു നിങ്ങൾ ഇഷ്ടിക എന്നും പെൻസിൽ എന്നും കേൾക്കുകയാണെങ്കിൽ ഇവയിൽ പാലത്തിൽ നിന്നും ഒരു ഭൌതികമായ ചിത്രം നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നു മറ്റ് പല ആശയങ്ങളും ഭൌതികമായ ചിത്രം സൃഷ്ടിച്ചേക്കില്ല ഉദാഹരണത്തിന് ഒരു രാജാവുണ്ടായിരുന്നു അവൻ വളരെ സത്യസന്ധനായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവിടെ സത്യസന്ധത എന്നുള്ളതിന് പലതരം ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ സത്യസന്ധത എന്നത് ഭൌതികമായ ഉദാഹരണം നിങ്ങളുടെ മനസ്സിൽ നിർമിക്കുന്നില്ല അതുപോലെ അയാൾ ഒരു കഠിനാധ്വാനിയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ കഥാപാത്രം ഉൾപ്പെടുന്ന കഥയിലെ പ്രക്രിയകളെ മാത്രമേ നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുകയുള്ളൂ കൂടാതെ ഈ സാഹചര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുക എന്നതിൻറെ അർത്ഥമെന്താണെന്നുള്ളത് ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തിയിലൂടെ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൻറെ ഇടപഴകലിനെ തീവ്രമാക്കുന്നതിലൂടെ നിങ്ങൾ അതനുസരിച്ച് ചിന്തിക്കുന്നു അതുപോലെ തന്നെ സത്യസന്ധത പോലെയുള്ള കൂടുതൽ ഗുണപരമായ സ്വഭാവമുള്ള പല യോഗ്യതകളും നിങ്ങളോട് പറഞ്ഞാൽ വ്യക്തമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നു അതിനാൽ ഇവയെ ദീർഘകാല ഓർമ്മയുമായി സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് ഭൌതികമായ പദങ്ങളുടെ ചിത്രങ്ങളും കൂടാതെ നമുക്ക് സ്വഭാവത്തിൽ കൂടുതൽ അമൂർത്തമായ ചില ചിത്രങ്ങളും ഉണ്ടായിരിക്കാം കാരണം ഇത് ഇങ്ങനെയാണ് ആയതിനാൽ ഭൌതികമായ പദങ്ങളുടെ പഠനവും സംഭരണവും അമൂർത്തമായ പദങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ വളരെ എളുപ്പമായിരിക്കും ദീർഘകാല ഓർമ്മയിൽ ആഗിരണം ചെയ്യപ്പെടുന്ന മറ്റൊരു രസകരമായ കാര്യമാണ് നാവിൻറെ തുമ്പത്ത് എന്ന് വിളിക്കുന്ന പ്രതിഭാസം അടിസ്ഥാനപരമായി നാം ശേഖരിച്ച വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിൽ തുടരെ പരാജയപ്പെടുന്നതിനെയാണ് നാവിൻറെ തുമ്പത്ത് എന്ന പ്രതിഭാസം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് നാവിൻറെ തുമ്പിൽ എവിടെയോ ഉണ്ടെങ്കിലും അത് വായിൽ നിന്ന് പുറത്തുകടക്കാതെ നിൽക്കുന്നു അതിനാൽ അതിനെ വീണ്ടെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഇതുപോലെയൊന്ന് വിചാരിച്ചു നോക്കൂ സമാധിമേടിനകത്തുള്ള പുറ്റിനകത്തുള്ള പാമ്പ് ഇതാണ് സമാധിമേട് പുറ്റ് പാമ്പ് പുറത്തു വരുന്നു വീണ്ടും അകത്തേക്ക് പോകുന്നു ആ വിവരം ഇപ്പോൾ ശേഖരിക്കപ്പെടും എന്ന രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുക ദീർഘകാല സംഭരണത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വിവരങ്ങൾ എടുക്കുവാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അവസാനം ലഭിക്കുന്നില്ല ഇതിനെയാണ് നാവിൻറെ തുമ്പത്ത് പ്രതിഭാസം എന്ന് വിളിക്കുന്നത് കൂടാതെ എന്തുകൊണ്ടാണിത് ഉണ്ടാകുന്നത് ഇത് ദീർഘകാല ഓർമ്മയിൽ വിവരങ്ങളുടെ സംഭരണം വളരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന വസ്തുതയെ അടിസ്ഥാനപരമായി പിന്തുണയ്ക്കുന്ന ഒരു പ്രതിഭാസമാണിത് അതിനാൽ ക്രമരഹിതമായി ഓർമ്മിക്കുവാൻ നിങ്ങൾ ശ്രമം നടത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് വിവരങ്ങൾ സംഘടിതമായ രീതിയിൽ അടുക്കിയിരിക്കുന്നതിനാൽ നിങ്ങൾ ഒരു ചിട്ടയായ ക്രമത്തിൽ നീങ്ങുകയാണെങ്കിൽ വീണ്ടെടുക്കൽ വളരെ എളുപ്പമാകുന്നു കാരണം വിവരങ്ങൾ സംഘടിതമായാണ് സംഭരിച്ചിരിക്കുന്നത് കൂടാതെ നിങ്ങൾ ക്രമരഹിതമായി ഓർമ്മിക്കാൻ തുടങ്ങുകയും അതിനെത്തുടർന്ന് നിങ്ങൾ അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു സൂചകപദങ്ങൾ ആത്മകഥാപരമായ ഓർമ്മ ദീർഘകാല ഓർമ്മ സെമാൻറിക് ഓർമ്മ സെമാൻറിക് ശൃംഖല ഫ്ലാഷ് ബൾബ് ഓർമ്മ ശിശു വിസ്മൃതി